സെക്ഷൻസ് ആൻഡ് സെക്ഷണൽ വ്യൂസ് തുടരുന്നു എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം നമ്മൾ ലക്ചർ നമ്പർ 47 ലാണ് സെക്ഷൻസും സെക്ഷണൽ വ്യൂ കാഴ്ചകളെയും കുറിച്ച് പഠിക്കുന്നു അവസാന ക്ലാസ്സിൽ നമ്മൾ ഫുൾ സെക്ഷൻ ഹാഫ് സെക്ഷൻ ഓഫ്സെറ്റ് സെക്ഷൻ എന്നിവയും റിവോൾവ്ഡ് സെക്ഷൻ എന്നിവ ഉൾപ്പെടുത്തി ഇന്നത്തെ ക്ലാസ്സിൽ റിബ് ആൻഡ് വെബ് സെക്ഷൻ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും അലൈൻഡ് സെക്ഷൻ സെക്ഷൻ ഉണ്ടെങ്കിൽ ബ്രോക്കൻ ഔട്ട് സെക്ഷൻ ഉപയോഗിച്ച് ഒരു ചെറിയ മെറ്റീരിയൽ നീക്കംചെയ്യുകയും ഈ സെക്ഷനൽ കാഴ്ചയിലെ സാധാരണ മെഷീൻ ഘടകങ്ങളെ എങ്ങനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ആദ്യം നമുക്ക് റിബ് ആൻഡ് വെബ് സെക്ഷൻ നോക്കാം സാധാരണയായി ഈ റിബ്സ് വെബ് ഫ്ളാൻജുകൾ ഇത്തരത്തിലുള്ള സെക്ഷൻസ് പിന്തുണയ്ക്കുന്നതിനുള്ള നിർണ്ണായക വസ്തുക്കളാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു ട്രാക്കിന് ഐ സെക്ഷൻ പോലെ ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട് ഇത്തരത്തിലുള്ള സെക്ഷൻ സാധാരണയായി ലോഡുകളെ പിന്തുണയ്ക്കുന്നു അതിനാൽ റിബ് വെബുകൾ ഇവ അധികവും മെഷീൻ ഘടകങ്ങളാണ് ഇത് ലോഡുകളെ പിന്തുണയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു കാന്റിലിവർ പോലുള്ള ഒന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഒരുപക്ഷേ നമ്മൾ പ്രതിനിധീകരിക്കാൻ താൽപ്പര്യപ്പെടുന്ന മധ്യഭാഗത്തെ താഴ്ന്ന നിലകൾ സാധാരണയായി ഈ റിബുകളും വെബുകളും വളരെ സഹായകരമായ യന്ത്ര ഘടകങ്ങളാണ് അതിനാൽ അത്തരം ഒരു യന്ത്ര ഘടകം നോക്കാം അതിനാൽ നമുക്ക് ഇവിടെ ഒരു ത്രിമാന ഒബ്ജക്റ്റ് ഉണ്ട് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു ഭാഗം പോലെയുള്ള ഒന്ന് ഉണ്ട് ആ ഭാഗത്തെ ഒരു ബേസ് പിന്തുണയ്ക്കുന്നു ഇത് ഒരു ഫ്ലേഞ്ച് തരത്തിലുള്ള ഒന്നുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ഘടകം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഈ ഘടകത്തിന്റെ കട്ട് സെക്ഷണൽ വ്യൂ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ നമ്മൾ രണ്ട് സെക്ഷൻ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സെക്ഷൻ എ എ മറ്റേത് സെക്ഷൻ ബി ബി ആരോ ദിശയിൽ ആ ഭാഗം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യ സെക്ഷൻ എ എ നോക്കാം നമുക്ക് ആ കട്ട് സെക്ഷൻ ഉള്ളപ്പോൾ ഈ ഭാഗം നിലനിർത്താനും ഈ ഭാഗം നീക്കംചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ അവിടെ നിന്ന് അവിടെ വരെ ഹാഷ് ലൈനുകൾ ഉണ്ടായിരിക്കണം നമ്മൾ അവിടെ ഒരു മെറ്റീരിയലും നീക്കംചെയ്തില്ല അതിനാൽ ഇത് ശൂന്യമാണ് വീണ്ടും നമ്മൾ അവിടെ മെറ്റീരിയൽ നീക്കം ചെയ്തു അതിനാൽ നമുക്ക് ഈ ഹാചിഡ് ലൈൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഭാഗം ആ വൃത്താകൃതിയിൽ നിന്ന് നീണ്ടുനിൽക്കുന്നു അതിനാൽ നിങ്ങൾ ആ വൃത്താകൃതി കാണുകയാണെങ്കിൽ ഇത് പിന്തുണയ്ക്കുന്ന ഒന്ന് പോലെയാണ് വളരെ നേർത്ത ഘടകം അതിനാൽ നമ്മൾ ആ ഭാഗം നീക്കംചെയ്യുമ്പോൾ നേർത്ത ഘടകങ്ങൾ ഒരിക്കലും ഹാചിഡ് ലൈന്കളാൽ കാണിക്കില്ല ഒബ്ജക്റ്റ് വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്ലേറ്റുകൾ ഫ്ളാൻജുകൾ മുതലായവ നമ്മൾ ഹാചിഡ് ലൈനുകളാൽ കാണിക്കില്ല ഇതാണ് ഫസ്റ്റ് കൺവെൻഷൻ കട്ടിയുള്ള ഘടകങ്ങൾ മാത്രമേ ഈ ഹാചിങ്ങ് ലൂടെ നമ്മൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ അതിനാൽ നമ്മൾ അത് നീക്കംചെയ്യുമ്പോൾ പുറകുവശത്ത് നമ്മൾ അത് നീക്കംചെയ്യാൻ പോകുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് അതുപോലെ ബേസ്മെന്റിൽ ഇത് വളരെ കട്ടിയുള്ളതാണ് അതിനാൽ നമ്മൾ ഹാചിഡ് ലൈനുകളാൽ പ്രതിനിധീകരിക്കുന്നു ഇനി നമുക്ക് സെക്ഷൻ ബി ബി നോക്കാം ഇത് നിലനിർത്തുക ഈ മുകളിലെ ഭാഗം നീക്കംചെയ്യുക ഈ കമ്പ്യൂട്ടർ പ്ലെയിനിന് ലംബമായി ഈ ബിയിലൂടെ സ്ലൈസ് ചെയ്യുമ്പോൾ ടോപ് വ്യൂവിൽ നിന്ന് അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമ്മൾ ദൃശ്യവൽക്കരിക്കുകയാണെങ്കിൽ കാരണം ഇത് ഒരു ടേപ്പർ ആണ് അതിനാൽ ആ ഭാഗം വരെ നമ്മൾ ആ മെറ്റീരിയൽ നീക്കംചെയ്തു അടി ഭാഗം ദൃശ്യമാണ് ടേപ്പർ മധ്യഭാഗം മാത്രം നമ്മൾ നീക്കംചെയ്തു അതിനാൽ ഒടുവിൽ സെക്ഷൻ അങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിബ് ആൻഡ് വെബ് സെക്ഷണൽ എന്ന് വിളിക്കുന്നു അതിനാൽ രണ്ട് വ്യുവിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ വസ്തുവിന്റെ ത്രിമാന പ്രൊജക്ഷൻ എങ്ങനെയെന്ന് മനസിലാക്കാൻ നമ്മൾക്ക് കഴിയും ഇനി നമുക്ക് മറ്റൊരു റിബ് വെബ് സെക്ഷന് നോക്കാം ഉദാഹരണത്തിന് നമ്മൾ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റ് ഇതാണ് ഈ ഭാഗം വളരെ നേർത്തതാണ് ഇത് ഈ സിലിണ്ടറിനെ പിന്തുണയ്ക്കുന്ന ഘടകം പോലെയാണ് നമ്മൾ ഏതെങ്കിലും കട്ട് സെക്ഷണൽ എടുക്കുമ്പോൾ ആ വസ്തുവിനെക്കുറിച്ച് നമ്മൾ ഫുൾ സെക്ഷനൽ വ്യൂ എടുക്കുകയാണെങ്കിൽപ്പോലും ഈ നേർത്ത ഭാഗം ഹാച്ച് ചെയ്യാൻ പാടില്ല ഇത് വളരെ നേർത്ത ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു പക്ഷേ മെറ്റീരിയൽ ആ സോണിനുള്ളിലും ഈ ഭാഗത്തിലും ആ ഭാഗത്തിലും ഹാച്ച് കാണിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ പ്രതിനിധീകരിക്കുമ്പോൾ ഈ മെറ്റീരിയൽ ഒരു പ്രാതിനിധ്യമായി കാണിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ആ വ്യൂ നോക്കാം അതിനാൽ ഈ ഭാഗം ഹാച്ച് ചെയ്യേണ്ടതാണ് അതിനാൽ നമ്മൾക്ക് ആ ഹാച്ച് ഉണ്ട് മെറ്റീരിയൽ അവിടെയെല്ലാം പോകുന്നു അതിനാൽ നമ്മൾക്ക് അത് ഉണ്ട് കാരണം ചുവടെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഹാച്ച് ഭാഗം ആ താഴത്തെ ഭാഗത്തിനുള്ളതാണ് ഫ്ലേഞ്ച് ഭാഗം അത് സ്ലൈസ് ചെയ്തതാണെങ്കിലും ഈ സ്റ്റാൻഡേർഡ് കൺവെൻഷൻ ഹാചിഡ് ലൈനിൽ അതിനെ പ്രതിനിധീകരിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് ആ സ്വതന്ത്ര ഭാഗം ലഭിക്കുന്നത് അതുപോലെ ഈ സ്വതന്ത്ര ഭാഗം നമ്മൾ കാണിക്കുന്നു ശേഷിക്കുന്ന ഭാഗങ്ങൾ ഹാച്ച് ചെയ്യുന്നു നമ്മൾ അവിടെ ഒരു വസ്തുവും നീക്കം ചെയ്തില്ല അതിനാൽ ഒരു മെറ്റീരിയലും നീക്കം ചെയ്തിട്ടില്ല അത്തരം റെപ്രെസെൻ്റേഷൻ നമ്മൾ കാണിക്കുന്നുവെങ്കിൽ നമ്മൾ റിബ് വെബ് സെക്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ പ്രധാന കാര്യം നോക്കൂ നമ്മളുടെ സെക്ഷൻ ഈ പ്ലെയിനിലൂടെ കടന്നുപോകുന്നു ഇപ്പോൾ അലൈൻഡ് സെക്ഷൻ എന്ന പുതിയ കാര്യം നോക്കാം അതിനാൽ ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ മെഷീൻ ഘടകം ഉണ്ട് നിങ്ങൾക്ക് ഇത് ഒരു മോട്ടറിന്റെ മുകളിലെ കവറായി കണക്കാക്കാം അതിനാൽ സാധാരണ ഇലക്ട്രിക്കൽ മോട്ടോറുകൾ ഷാഫ്റ്റ് ഉണ്ടാകും കൂടാതെ റോട്ടറും മറ്റും ഉണ്ടാകും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്ലേറ്റ് ബിയെറിങ് പോലത്തെ പിന്തുണയ്ക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ടാകും അത് അതിൽ ചേർത്ത് അതിൽ ബോൾട്ട് ചെയ്യുക ഉറപ്പിക്കുക അത്തരം യന്ത്ര ഘടകങ്ങൾ നമ്മൾ ഇവിടെ കാണാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ആ മെഷീൻ ഘടകത്തിന്റെ ആന്തരിക ഭാഗം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് നീക്കംചെയ്ത് നിലനിർത്തുക ഈ അലൈൻഡ് സെക്ഷൻ പറയുന്നത് ഈ നീക്കംചെയ്യലിനെയും സൂചിപ്പിക്കലിനേയും നമുക്ക് രണ്ട് വഴികളിലൂടെ പ്രതിനിധീകരിക്കാൻ കഴിയും പ്രൊജക്ഷണൽ വ്യൂവിൽ അത് എങ്ങനെ കാണപ്പെടുന്നു അതു നേരിട്ട് കാണുന്നു മറ്റൊരു വഴി ഈ വസ്തുവിനെ താഴേക്ക് തിരിക്കുക എന്നതാണ്അത് എങ്ങനെ പ്രതിനിധീകരിക്കുന്നു അങ്ങനെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഉപയോഗത്തെ നമ്മൾ അലൈൻഡ് സെക്ഷൻ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് കട്ട് സെക്ഷന് ശേഷം നമ്മൾ ഇത് മുഴുവനും കറക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു ഈ ലൈനുകൾ ഉടൻ തന്നെ പ്രൊജക്റ്റ് ചെയും പക്ഷെ നമ്മൾ അത് കറക്കുവാണെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ ഈ കറക്കിയ ഭാഗം പ്രൊജക്റ്റ് ചെയ്യുക ആണെങ്കിൽ ഇത് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു അവിടെ പ്രോജക്റ്റ് ചെയ്യണം അതുപോലെ ഓരോ പോയിന്റും നാം തിരിക്കുകയും അതിനെ പ്രതിനിധീകരിക്കുകയും വേണം ഇതാണ് റവലൂഷൻ കൺവെൻഷനുകൾ ഉപയോഗിച്ചുള്ള അലൈൻഡ് സെക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനാൽ അത് സംഭവിക്കുകയാണെങ്കിൽ അതിനാൽ ഈ ഭാഗങ്ങളാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം മുറിക്കാൻ പോകുന്നു ആ ഭാഗം മുറിക്കുക മെറ്റീരിയൽ നീക്കംചെയ്യാൻ പോകുന്നു അതിനാൽ അവ തുടർച്ചയായ ലൈനുകൾ ആയി മാറുന്നു സെക്ഷനൽ വ്യൂവിൽ ഈ ഭാഗവും ആ ഭാഗവും നമ്മൾ നീക്കംചെയ്ത മെറ്റീരിയൽ എന്തായാലും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ഭാഗവും ആ ഭാഗവും നാം കാണും അത്തരത്തിലുള്ള റെപ്രെസെൻ്റേഷൻ നമ്മൾ അലൈൻഡ് സെക്ഷനൽ കാഴ്ചകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ബ്രോക്കൻ ഔട്ട് സെക്ഷൻസ് നോക്കാം ചില ഒബ്ജക്റ്റിനെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു പൂർണ്ണ സ്ലൈസ് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഉദാഹരണത്തിന് ഇവിടെ നമ്മൾക്ക് അത്തരം മെഷീൻ ഘടകമുണ്ട് ഇത് ഒരു സമമിതിയാണ് മാത്രമല്ല ആ മുഴുവൻ വസ്തുവിന്റെയും എല്ലാ വിശദാംശങ്ങളും പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ആ വസ്തുവിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ചുവടെയുള്ള ഭാഗത്ത് ഏതെങ്കിലും കട്ട് സെക്ഷനൽ വ്യൂ കാണിക്കാൻ നമ്മൾക്ക് താൽപ്പര്യമില്ല ഒരു പ്രത്യേക ഭാഗം മാത്രമേ നിങ്ങൾ കാണിക്കുന്നുള്ളെങ്കിൽ നമ്മൾ ബ്രോക്കൻ ഔട്ട് സെക്ഷൻസ് എന്ന് വിളിക്കും അതിനാൽ ഇവിടെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഭാഗം ഈ ഭാഗം നീക്കംചെയ്യാനും നിലനിർത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ ടോപ് വ്യൂ നോക്കുക ആണെങ്കിൽ ഒബ്ജക്റ്റ് സമമിതി ആണ് നമുക്ക് ഒരു വശത്ത് മാത്രമേ ദ്വാരം ഉള്ളൂ എല്ലായിടത്തും അല്ല അത്തരം കട്ട് സെക്ഷണൽ കാഴ്ച കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ഭാഗം നീക്കം ചെയ്തതിനുശേഷം ഫ്രണ്ട് വ്യൂവിൽ അത് എങ്ങനെ കാണപ്പെടുന്നു എന്നത് ആ ദ്വാരത്തിന് സമീപമാണ് നമുക്ക് വീണ്ടും ഇവിടെ മെറ്റീരിയൽ ഉണ്ടാകും കൂടാതെ ഒരു കട്ട് സെക്ഷൻ സംഭവിക്കുന്നത് ബ്രോക്കൻ ഔട്ട് സെക്ഷനിലൂടെയാണ് അതിനാൽ ഒരു തരം വേവ് പോലത്തെ വരയിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നു ഡാഷ് ചെയ്ത ലൈനുകൾ ഇപ്പോഴും നിലവിലുണ്ട് കാരണം നമ്മൾ ആ മെറ്റീരിയൽ നീക്കം ചെയ്തില്ല സാധാരണയായി സെക്ഷനൽ വ്യൂ കാഴ്ചകളിൽ ഈ ബ്രോക്കൻ ഔട്ട് സെക്ഷൻ ഒഴികെ നമ്മൾ കാണിക്കില്ല അത്തരം മറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുവദനീയമാണ് ഇപ്പോൾ നീക്കംചെയ്ത സെക്ഷൻ നോക്കാം ഉദാഹരണത്തിന് നമ്മളുടെ സ്ക്രൂഡ്രൈവർ പോലെ ഇത്തരത്തിലുള്ള മെഷീൻ എലമെൻറ് ഉണ്ട് ഇവിടെ ഇത് ഹാൻഡിൽ ഭാഗമാണ് കൂടാതെ ചിലതരം ടേപ്പേട് ഹെക്സഗനൽ പാറ്റേൺ ഉണ്ട് വീണ്ടും മറ്റൊരു പാറ്റേൺ നമുക്ക് ആ ട്വിസ്റ്റർ തരത്തിലുള്ള ഭാഗം ഉണ്ട് അത്തരം യന്ത്ര ഘടകങ്ങൾ നമ്മൾ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെയുള്ള സെക്ഷനേക്കുറിച്ച് അവിടെയുള്ള സെക്ഷനേക്കുറിച്ച് അവിടെയുള്ള സെക്ഷനേക്കുറിച്ച് അവിടെയുള്ള സെക്ഷനേക്കുറിച്ച് അവിടെയുള്ള സെക്ഷനേക്കുറിച്ചും എന്തു പറയുന്നു ഇപ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ ഒരേ മെറ്റീരിയലിൽ വിവിധ സെക്ഷനിൽ ഉണ്ട് അതിനാൽ ഇത് കാണിക്കുന്നു ഇത് ഒരു സമമിതി വസ്തുവാണ് അതിനാൽ ഓഫ്സെറ്റ് സെക്ഷൻ പോലുള്ള എന്തെങ്കിലും എടുക്കുന്നത് കൊണ്ട് കാര്യമില്ല അതിനാൽ അതിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഉണ്ടായിരിക്കണം അത്തരം സെക്ഷന് നമ്മൾ റിമൂവ്ഡ് സെക്ഷൻ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ മെറ്റീരിയൽ ഘടകം വ്യത്യസ്തമാണ് സെക്ഷനൽ ഏരിയ വ്യത്യസ്തമാണ് എ ബി സി ഇവയെല്ലാം ഒരു ചിത്രത്തിൽ മാത്രം പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂന്ന് വ്യത്യസ്ത ചിത്രങ്ങൾ കാണിക്കുന്നതിനുപകരം ഒരു ചിത്രത്തിൽ തന്നെ മൂന്നും നേടാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നു അതിനാൽ എനിക്ക് ആ സെക്ഷനൽ വ്യൂ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഭാഗം വൃത്താകൃതിയിലായിരിക്കാം ബി ഭാഗം ഹെക്സഗൺ പോലെയാണ് ഇവിടെ ഈ ഭാഗം പൂർണ്ണമായും ചതുരാകൃതിയിലുള്ള കാര്യമാണ് ഒപ്പം നമ്മൾ കാണിക്കേണ്ട ദിശാസൂചന മുൻഗണനയോടൊപ്പം അതിനാൽ അത് പ്രതിനിധീകരിക്കുന്നതിന് സെക്ഷനൽ കാഴ്ചയെ പ്രതിനിധീകരിക്കുന്നതാണ് എളുപ്പവഴി അതിനാൽ നമ്മൾക്ക് ആ ദിശയിൽ ഒരു സ്ലൈസ് ഉണ്ട് അത് ഒരു സർക്കിൾ പോലെ തോന്നുന്നു ഇപ്പോൾ അതേ സെക്ഷനിൽ 90 ഡിഗ്രിയിലേക്ക് ആ സർക്കിൾ ഫ്ലിപ്പുചെയ്യുക അതിനാൽ അത്തരം റെപ്രെസെൻ്റേഷൻ നമ്മൾ റിമൂവ്ഡ് സെക്ഷൻ എന്ന് വിളിക്കുന്നു നമ്മൾക്ക് അവിടെ ഒരു സർക്കിളിന്റെ ഒരു കഷ്ണം ഉണ്ടെന്നല്ല ലംബമായ 90 ഡിഗ്രി തലത്തിൽ നമ്മൾക്ക് ഒരു സ്ലൈസ് ഉണ്ട് നമ്മൾ അത് മെഷീൻ എലമെന്റിൽ ഫ്ലിപ്പുചെയ്യുകയും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ഈ കാഴ്ചയിൽ ഒരു ഹെക്സഗൺ പോലെ കാണപ്പെടുന്ന ഒരു സെക്ഷൻ നമ്മൾക്ക് ഉണ്ടായിരിക്കും എന്നാൽ അതേ സമയം മുഴുവൻ ഘടകത്തെയും പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സെക്ഷനൽ റെപ്രെസെൻ്റേഷൻ മാത്രം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മുഴുവൻ ഘടകങ്ങളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഹെക്സഗൺൻ്റെ ആ സെക്ഷനൽ കാഴ്ച ഞാൻ അതിനെ 90 ഡിഗ്രി ഫ്ലിപ്പുചെയ്യും മെറ്റീരിയലിൽ ഞാൻ അത് കാണിക്കും അതുപോലെ ഇവിടെ നമുക്ക് ഒരു സെക്ഷനൽ വ്യൂ കാഴ്ചയുണ്ട് അത് 90 ഡിഗ്രി ആ രീതിയിൽ തിരിക്കുക ആ വസ്തുവിൽ പ്രതിനിധീകരിക്കുക അതിനാൽ ഈ റിമൂവ്ഡ് സെക്ഷൻ്റെ പ്രയോജനം ഒരു വശത്ത് പൂർണ്ണമായ മെഷീൻ ഘടകവും കട്ട് സെക്ഷണൽ കാഴ്ചകളും കാണാനാകും അതിനാൽ ഈ സെക്ഷനൽ പ്രാതിനിധ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു ഒരു സാധാരണ മെഷീൻ ഘടകത്തിന്റെ ഡ്രോയിംഗ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ കാണപ്പെടും നമ്മൾ കാണാൻ പോകുന്ന ഒരു ഉദാഹരണം അതിനാൽ ഇവിടെ നമ്മൾക്ക് ഒരു ടർബോ പമ്പ് ടർബൈൻ ഉണ്ട് ഞാൻ ആ മുഴുവൻ ടർബോ പമ്പ് ടർബൈൻ എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ സെക്ഷനൽ റെപ്രെസെൻ്റേഷൻ എടുക്കുന്നു സങ്കീർണ്ണമായ വിശദാംശങ്ങൾ ഈ രീതിയിൽ പുറത്തുവരും ടർബൈൻ ഷാഫ്റ്റ് പോലെയുള്ള ഒന്ന് ഉണ്ട് ഈ മെറ്റീരിയൽ ഈ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഈ ലൈനുകൾ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ മെഷീൻ എലമെന്റിന്റെ ആന്തരിക വിശദാംശങ്ങൾ ഒരാൾക്ക് കാണാൻ കഴിയും ഈ ഭാഗം വ്യത്യസ്തമാണ് ഈ ഭാഗം സ്ട്രെസ് നോസിലുകളിൽ നിന്ന് വ്യത്യസ്തമാണ് അതുപോലെ ഓയിൽ റിംഗ് വ്യത്യസ്തമാണ് ഒരുപക്ഷേ ലിംഗർ വ്യത്യസ്തമായിരിക്കും ചോർച്ച എങ്ങനെ കാണപ്പെടുന്നുവെന്ന് തടയാൻ എന്തെങ്കിലും റിംഗ് ഉണ്ടെങ്കിൽ ബെയറിംഗ് ഭാഗം വ്യത്യസ്തമായിരിക്കും ഏതെങ്കിലും ഷാഫ്റ്റ് സീലുകൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെയിരിക്കും മെറ്റീരിയൽ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഈ ഹാചിഡ് ലൈന്കളെ അടിസ്ഥാനമാക്കി ആ മെഷീൻ ഘടകത്തിന്റെ പൂർണ്ണമായ മുഴുവൻ സെക്ഷനൽ വിശദാംശങ്ങളും നമ്മൾ പ്രതിനിധീകരിക്കും അതിനാൽ ഓരോന്നും സ്പേസിംഗ് ഈ ലൈനുകളുടെ കനം എത്ര ഇരുണ്ടതാണ് ഏത് തരം ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് അടിസ്ഥാനമാക്കി ആളുകൾക്ക് ഇത് ഏത് തരത്തിലുള്ള മെറ്റീരിയലാണെന്ന് മനസ്സിലാകും അതിനാൽ നമ്മൾ ഈ ഡ്രോയിംഗ് ഷീറ്റുകൾ പ്രൊഡക്ഷൻ ലൈനിൽ പങ്കിടുമ്പോൾ പ്രാദേശിക പ്രതിനിധി ഒരാൾ ഏതുതരം മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കണം അതിനാൽ അത്തരം സെക്ഷനൽ കാഴ്ചകൾ നമ്മൾക്ക് ആവശ്യമായിരുന്നു ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ സെക്ഷനൽ കാഴ്ചകൾ ഊഹിക്കാൻ കഴിയുമോ ഉദാഹരണത്തിന് ഇതാണ് ബ്ലോക്കുകൾ എന്റെ പക്കലുള്ളത് അതിലൂടെ കടന്നുപോകുന്ന ഒരു ഫുൾ സെക്ഷനൽ വ്യൂ ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭാഗം നിലനിർത്താനും നീക്കംചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്താൽ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂവിലും ഇത് എങ്ങനെ കാണപ്പെടുന്നു ടോപ് വ്യൂ കാഴ്ചയിൽ പ്ളെയിൻ കൃത്യമായി കടന്നുപോകുന്ന കട്ട് പ്ളെയിൻ എന്നിവ വിലമതിക്കേണ്ട അവസ്ഥയിലായിരിക്കും നമ്മൾ അതിനാൽ ടോപ് വ്യൂവിൽ കാണുമ്പോൾ നീക്കംചെയ്യുന്നതിന് മുമ്പ് പ്ളെയിൻ ഉൾപ്പെടെ ആ വിവരങ്ങളുടെ പൂർണ്ണ വിശദാംശങ്ങൾ നമ്മൾ കാണിക്കും ദിശയെ അടിസ്ഥാനമാക്കി ആ സൈഡ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ കാഴ്ചയിൽ ഇത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നീക്കംചെയ്തതിനുശേഷം അതിനാൽ നീക്കം ചെയ്തതിനുശേഷം ഹാചിഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിശദാംശങ്ങൾ നമ്മൾ കാണിക്കും മറ്റ് വിവരങ്ങളിൽ നമ്മൾ പ്ളെയിൻ വിവരങ്ങളുമായുള്ള പൂർണ്ണ വിശദാംശങ്ങൾ കാണിക്കും അതിനാൽ നമുക്ക് പരിഹാരം നോക്കാം അതിനാൽ ഇവിടെ നമ്മൾ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെല്ലാം കാണിക്കുന്നു ടോപ്പ് വ്യൂ പോലുള്ള ഒന്ന് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ sectional front view പോലുള്ളത് ഇടത് വശത്തെ സെക്ഷണൽ വ്യൂ കാഴ്ച പോലുള്ള ഒന്ന് അതിനാൽ ഇത് എങ്ങനെ കാടുന്നു അതിനാൽ ഇതാണ് ഫ്രണ്ട് വ്യൂ ദിശ ഇതാണ് ഈ രീതിയിൽ ടോപ്പ് വ്യൂ ദിശ മുകളിലെ കാഴ്ചയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ പൂർണ്ണമായ വിശദാംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ നമ്മൾക്ക് ഒരു കട്ട് പ്ലെയിൻ ഉണ്ട് അതിനാൽ നമ്മൾ ഇത് ഡാഷ് ചെയ്ത വരികളിലൂടെ കാണിക്കുന്നു അളവുകൾ നമ്മൾ വ്യക്തമായി കാണിക്കും മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ദൃശ്യമാണ് കാരണം ടോപ് വ്യൂവിൽ നമ്മൾ സെക്ഷൻ നീക്കംചെയ്തില്ല എന്നാൽ ഈ സെക്ഷനിൽ നമ്മൾ അത് നടപ്പിലാക്കിയാൽ ഫ്രണ്ട് വ്യൂ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ നമ്മൾ ഡാഷ് ചെയ്ത വരികളൊന്നും ആന്തരികമായി കാണിക്കരുത് ഈ ഡാഷ് ചെയ്ത ലൈനുകൾ നമ്മൾ പ്രതിനിധീകരിക്കുന്നില്ല ഇത് തുടർച്ചയായ ഒരു ലൈൻ പോലെ പുറത്തുവരുന്നു ആ ഭാഗത്തിനുള്ളിൽ മെറ്റീരിയൽ നീക്കംചെയ്യുന്നു അതിനാൽ നമുക്ക് ഹാചിഡ് ലൈന്കളുണ്ട് മെറ്റീരിയൽ ആ ഭാഗത്തിനുള്ളിൽ നീക്കംചെയ്യുന്നു നമ്മൾക്ക് ഈ ഭാഗം ഉണ്ട് ഇപ്പോൾ ഇത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ് ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ കാഴ്ചയാണ് അവിടെ വീണ്ടും ഒരു പ്ളെയിൻ അതിലൂടെ കടന്നുപോകുന്നു അതിനാൽ നീക്കംചെയ്യുന്നതിന് മുമ്പ് ഇത് എങ്ങനെ കാണപ്പെടുന്നു നമ്മൾ മെറ്റീരിയലിനെ പ്രതിനിധീകരിക്കുന്ന രീതി ഇതാണ്